അടിസ്ഥാനപരമായി സ്പേസിലും ടൈമിലുംഫൈനൈറ്റ് ഡിഫറെൻസ് ടൈം ഡോമെയിൻ മെത്തോഡുകൾ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ന്യൂമറിക്കൽ അനാലിസിസ് ഓഫ് FDTD യുടെ വിശദാമ്ശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് ഇത് ഒരു പുതിയ കാര്യം ആണ് നമ്മൾ ഇത് ഫൈനൈറ്റ് എലമെന്റ് മെത്തോഡുകളിലെ ഇന്റെഗ്രേഷൻ ഇക്വേഷൻ മെത്തോഡുകളിൽ പഠിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ടൈം എക്സ്പ്ലിസിറ്റിലിആണ് കൈകാര്യം ചെയ്യുന്നത്അതുകൊണ്ടാണ് ഇപ്പൊൾ അത് പഠിക്കുന്നത് ഉദാഹരണമായി ഇവിടെ ഒരു ചോദ്യം വരാം സൊല്യൂഷന് സ്ഥിരത ഉണ്ടോ ഇന്റഗ്രൽ മെത്തോഡ്സ് ന്റെ കേസിൽ നമ്മൾ e യെ j ഒമേഘ t യിലേക്ക് എടുത്തു അത്കൊണ്ട് അതിനെപ്പോഴും ടൈമിന് യോജിച്ച സ്വഭാവം ആണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഉറപ്പ് പറയാൻ കഴിയില്ല അത് കൊണ്ട് നമ്മൾ ഏത് കണ്ടിഷനുകളിൽ ആണ് പഠിക്കേണ്ടത് അവിടെ എന്തെങ്കിലും കണ്ടീഷനുകൾ ഉണ്ടോ ഇതുവരെ നമ്മൾ FDTD യിൽ കണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഡിസ്ക്രിടൈസേഷൻ ഇതുവരെ നമ്മൾ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ രൂപകല്പന നിയമങ്ങളോ നൽകിയിട്ടില്ല ഒരു സൊല്യൂഷൻ കിട്ടാൻ ന് എന്ത് മൂല്യങ്ങൾ ആണ് കൊടുക്കേണ്ടത് എന്ന് എങ്ങനെ അറിയാം ഏതിന് വേണമെങ്കിലും എനിക്ക് ഈ നടപടിക്രമം ഉപയോഗിക്കാൻ കഴിയും എന്നതിന് അർഥം ഉത്തരം ശരിയാവണം എന്നല്ല എങ്ങനെയാണ് ഒരു അർഥവത്തായ സൊല്യൂഷൻ കിട്ടുക എന്ന് അറിയുന്നതിന് വേണ്ടി ന്യൂമറിക്കൽ അനാലിസിസ് നമുക്ക് ഇവിടെ പഠിക്കാം നമ്മൾ നോക്കാൻ പോവുന്ന സ്ഥിരത മാനദണ്ഡം വളരെ ലളിതമാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോവുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നിസ്സാരമായ ഉദാഹരണം നോക്കാം അതിന്റെ ശരിക്കുമുള്ള സൊല്യൂഷൻഎനിക്ക് അറിയാം അതിനെ ഞാൻ FDTD യിൽ നിന്ന് കിട്ടുന്ന കമ്പ്യൂട്ടഡ് സൊല്യൂഷനുമായി താരതമ്യപ്പെടുത്തി നോക്കും നമുക്ക് അത് രണ്ടും ഒരു പോലെ കിട്ടണം അല്ലെങ്കിൽ കുറഞ്ഞത് തെറ്റ് നിയന്ത്രിക്കുക എങ്കിലും വേണം ഏത് സാഹചര്യങ്ങളിൽ ആണ് അത് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം മാക്സ്വെൽസ് ഇക്വേഷൻ Maxwells equation ആണ് എടുക്കേണ്ടത് നമുക്ക് അത് എടുത്ത് സോൾവ്ചെയ്യാം ഫ്രീ സ്പേസിലെ മാക്സ്വെൽസ് ഇക്വേഷനെMaxwells equation കുറിച്ച് എന്തറിയാംകറണ്ട് ഇല്ല സോഴ്സസ് ഇല്ല ഒന്നുമില്ല സൊല്യൂഷൻ പ്ലെയിൻ വേവ്ആയിരിക്കും എന്ന് നമുക്ക് അറിയാം ഈ പ്ലെയിൻ വേവ് നമ്മളെ ഒരു പാട് തവണ സഹായിക്കുന്നു അപ്പോൾ നമുക്ക് പ്ലെയിൻ വേവ് ആശയം തൊട്ടു തുടങ്ങാം ഇത് നമുക്ക് 1 ഡൈമെൻഷണിൽ എടുക്കാം അത് വേവ് ഇക്വേഷൻതൃപ്തിപ്പെടുത്തുന്നു ഇതിന് ഏതു ഫോമിലുള്ള അനലിറ്റിക്കൽ സൊല്യൂഷൻ ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം ഇവയാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷനുകൾ നമുക്ക് ഒരു റഫറൻസ് സൊല്യൂഷൻ ഉണ്ട് എന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷനുകൾ ഡിസ്ക്രിടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ഇവ ഡിസ്ക്രിടൈസ് ചെയ്യും ആദ്യം നമുക്ക് ഇത് ഏത് ഓർഡറിൽഉള്ള ഡെറിവേറ്റീവ് derivative ആണെന്ന് നോക്കാം സെക്കന്റ് ഓർഡർ ഡെറിവേറ്റീവ് ഞാൻ ഇത് എഴുതുമ്പോൾ ടയിലേർസ് സിദ്ധാന്തംTaylors theoremഉപയോഗിക്കും കാരണം അതാണ് നമ്മൾ ഉപയോഗിച്ചത് അതായത് ഒന്നാമത്തെ ടെർമിൽ ഞാൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉൾപ്പെടുത്തും എനിക്ക് ടൈലേഴ്സ് അപ്രോക്സിമേഷൻ Taylors approximationകിട്ടി എനിക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ അപ്രോക്സിമേഷൻവേണം അത്പോലെ എനിക്ക് വേണ്ടിയും എഴുതാൻ കഴിയും ഒരേ ടെർമ് മൈനസ് ഒരേ ടെർമ് പ്ലസ് അതാണ് ഫോർമാറ്റ് ഇപ്പോൾ എനിക്ക് സെക്കന്റ് ഓർഡർ ഡെറിവേറ്റീവ് അപ്രോക്സിമേറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷനുകളെയുംഞാൻ എന്ത് ചെയ്യും കൂട്ടുക കുറക്കുക ഗുണിക്കുക ഹരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഈ ഇക്വേഷനുകൾ കൂട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥി 5 ഫസ്റ്റ് വേവ് ഇക്വേഷനെസെക്കന്റ് ഓർഡർ ഡെറിവേറ്റീവ്ആയി കാണുക എനിക്ക് സെക്കന്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ അപ്രോക്സിമേഷൻ വേണം ഞാൻ ഇത് കൂട്ടിയാൽ ഇവിടെ എന്ത് കിട്ടും ഇത് ശരിയാണോ അതോ നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കിപ്പോയോ എനിക്ക് ഇത് ഒഴിവാക്കാൻ കഴിയും ഇത് പ്ലസ് ഹയർ ഓർഡർ ടെർമുകൾ ആണ് ഇപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും വിളിക്കാം ഇക്വേഷൻ 2 നെ 1 ലേക്ക് ഇട്ടാൽ ഇത് എനിക്ക് സ്പേസിൽ പ്രയോഗിക്കാം ടൈമിൽ പ്രയോഗിക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടെർമ് എഴുതിനോക്കാം ഇതാണ് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ ഞാൻ ഗ്രിഡിലെ ഇലക്ട്രിക് ഫീൽഡുകളിലേക്ക് നോക്കുകയാണ് സ്പേസിലെ ഇലക്ട്രിക് ഫീൽഡുകൾ എനിക്ക് എവിടെ അറിയാൻ കഴിയും ഇലക്ട്രിക് ഫീൽഡുകൾ എത്ര അകലെയാണ് എന്താണ് ഇവിടെ ഞാൻ എഴുതേണ്ടത് ആദ്യം ഷോർട് ഹാൻഡ് നോറ്റേഷനിൽ എഴുതാം ഇതെല്ലാം ഒരേ സമയത്താണ് സംഭവിക്കുന്നത് പക്ഷെ സ്പേസിലെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ആയിരിക്കും ഞാൻ എന്താണ് എഴുതേണ്ടത് ആദ്യത്തെ ടെർമ് എന്തായിരിക്കണം അവിടെ j ഇല്ല നമുക്ക് ഇത് 1D ആക്കാം ഗ്രിഡ് പോയ്ന്റ്സ് ഇന്റിജർസ് 1234 i എന്ന് നമ്പർ ചെയ്തിരിക്കുകയാണ് അത്കൊണ്ട് ഈ എന്താണ് ഇത് അടുത്ത ഗ്രിഡ് പോയിന്റ്ആണ് വിദ്യാർത്ഥി അതേ ഞാൻ നെ i ആയി എടുത്താൽ ഇത് ആണ് അടുത്ത ടെർമ് മൈനസ് ആയിരിക്കും ഞാൻ സൂചിപ്പിക്കാൻ i ആണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയതിൽ 3 പോയന്റുകളിൽ മൂല്യനിർണ്ണയം ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടു അടുത്തടുത്ത പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എന്തായിരിക്കും അതാണ് എന്റെ കാരണം അവിടെയാണ് ഞാൻ എന്റെ ഇലക്ട്രിക് ഫീൽഡ് സംഭരിച്ചിരിക്കുന്നത് അതിനാൽ ഈ ടെർമ് രണ്ട് തവണ വരും അടുത്ത അവസാനത്തെ ടെർമ് എളുപ്പമാണ് ടൈം ഇണ്ടെക്സ്nആണ് സ്പേസ് ഇണ്ടെക്സ് ആണ് വിദ്യാർത്ഥി 1 കാരണം ഇത് ആണ് സ്പേസിനെ ഈ x നെ പോലെ ചിന്തിക്കുക ഇത് i ഇത് i1 ഇത് i 1 ഗ്രാഫിക്കലി സെക്കന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും ഇത് ഈ മൂന്ന് പോയിന്റിലും ഉള്ള പ്രവർത്തന വിലയിരുത്തലിന്റെ സംയോജനം ആണ് വിദ്യാർത്ഥി അപ്പോൾ നമ്മൾ എടുക്കുന്നു അല്ല ഇത് അത് തന്നെയാണ് എന്തിനോടാണ് ഹരിക്കുന്നത് 1 അല്ല രണ്ടാമത്തെ ഇക്വേഷന്റെ ഡിനോമിനേറ്റർ എന്താണ് വിദ്യാർത്ഥി ശരിയാണ് ഇതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നുപോയിരിക്കാം ഇതിന്റെ അർഥം ലെയും ലെയും ഇലക്ട്രിക് ഫീൽഡ്എന്നാണ് ഇപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സ്പേസിലെ ഓരോ പോയിന്റും കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു ഓരോ ടൈം ഇൻസ്റ്റൻസും കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു അതാണ് സ്പേസിലെയും ടൈമിലെയും ഡിസ്ക്രിടൈസേഷൻ അതിനാൽ ഇത് നോട് സമം ആവും ഇപ്പോൾ ഞാൻ ഇത് ആദ്യത്തെ ടെർമ് ആയിട്ട് എന്താണ് എഴുതേണ്ടത് ഞാൻ സെക്കൻഡ് ടൈം ഡെറിവേറ്റീവിനെ ഏകദേശം കണക്കാക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ E ഞാൻ എന്ത് എഴുതും സ്പേസിലെ എന്ത് പോയിന്റ് നമ്മൾ തെരഞ്ഞെടുക്കും സ്പേസിലെ ഏറ്റവും ലളിതമായ പോയിന്റ് i വിദ്യാർത്ഥി i വളരെ നല്ലത് ടൈം n1 ശരിയാണ് കാരണം ഇപ്പോൾ ഞാൻ ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണ് എനിക്ക് ടൈമിൽ വ്യത്യസ്ത ഗ്രിഡ് പോയിന്റുകൾ എടുക്കേണ്ടി വരും അടുത്ത ടെർമ് ആണ് ടൈമിൽ അവ എത്ര അകലെയാണ് വിദ്യാർത്ഥി 1 1 അല്ല ഇവിടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും അല്ല മറ്റൊന്നാണ്c യുടെ ഫാക്ടർനെ മറന്നുകൊണ്ട് അത് വേവ് ഇക്വേഷനിൽ നിന്ന് വന്നതാണ് ഇതാണ് വേവ് ഇക്വേഷൻ ഇത് കണ്ടിന്നുഅസ് കോഓർഡിനേറ്റ്സിൽആണ് പക്ഷേ ഡിസ്ക്രിടൈസ് വേർഷനിൽഇതെല്ലാം നമ്മൾ ചെയ്ത ടെർമുകൾ ആണ് ഞാൻ സ്പേസിനെ ഡിസ്ക്രിടൈസ്ചെയ്യുന്നു ഞാൻ ടൈമിനെ ഡിസ്ക്രിടൈസ് ചെയ്യുന്നു ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മറ്റു രണ്ട് ഇൻസ്റ്റൻസസിനെകുറിച്ച് ചിന്തിക്കാം ഇത് ഇവിടെയുള്ള ടൈം ആണെങ്കിൽ ഇവയാണ് ഉപയോഗിക്കുന്ന 5 തരത്തിൽ ഉള്ള സ്റ്റെൻസിൽ പോയിന്റുകൾ ഗ്രിഡ്ന്റെ വലുപ്പം അത്പോലെ നിലനിൽക്കുന്നു ഞാൻ എന്റെ ഫങ്ക്ഷൻ കൊണ്ട് വേർതിരിച്ച ഗ്രിഡ് പോയിന്റുകളിൽ വെച്ച് മൂല്യനിർണ്ണയം നടത്തുന്നു പക്ഷെ ഇപ്പോൾ നെ അപ്രോക്സിമേറ്റ്ചെയ്യാൻ എനിക്ക് 3 മൂല്യങ്ങൾ വേണം മുമ്പ് 2 മതിയായിരുന്നു ഈ ചിത്രം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അവിടെ x ഉണ്ട് t വെർട്ടിക്കൽ ഡൈമെൻഷൻആണ് ഇവയാണ് ഈ ഫംഗ്ഷൻമൂല്യനിർണയം നടത്താൻ ഉപയോഗിക്കുന്ന അഞ്ച് സ്റ്റെൻസിൽ പോയിന്റുകൾ മിഡ് പോയിന്റ് ഒന്ന് തന്നെയാണ് ഏതുതരത്തിലുള്ള വേവ് ആണ് അങ്ങനെയുള്ള ഒരു ഗ്രിഡിലൂടെ പോവുന്നത് എന്ന് നമുക്ക് അറിയണംഅതിന് പരിധിയിൽ ഉള്ള ഫൈനൈറ്റ് ഉം ഉം ഉണ്ട് പരിധിയിൽ ഇത് എനിക്ക് ഡിഫറെൻഷിയൽ ഇക്വേഷൻതരുന്നു പക്ഷേ ഞാൻ ചില ഫൈനൈറ്റ് ഉം ഉം തിരഞ്ഞെടുത്താൽ എന്ത് സംഭവിക്കും ഇതിന്റെ സൊല്യൂഷൻ എന്താണ് എനിക്കറിയാം സൊല്യൂഷൻഒരു വേവ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സൊല്യൂഷന്റെ ഒരു ട്രയൽ ഫോംനിങ്ങൾ ഊഹിക്കുകയും എന്നിട്ട് അത് പകരം വെക്കുകയും ചെയ്യും ഇത് ന്യൂമെറിക്കൽ അനാലിസിസിലെ ഒരു സാധാരണ ടെക്നിക്ക് ആണ് ഇക്വേഷനിൽ നിന്ന് ഇത് കണ്ടു പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ഒരു ട്രയൽ ഫോം ഊഹിക്കുകയും അത് ഇക്വേഷൻ ലേക്ക് തള്ളിക്കയറ്റുകയും ചെയ്യുന്നു ഇത് നടക്കുമോ എന്ന് നോക്കാം ഈ ട്രയൽ ഫോംഒരു വേവ് സൊല്യൂഷനും നോൺ വേവ് സൊല്യൂഷനുംനൽകാൻ പര്യാപ്തമായിരിക്കണം ഇത് തരുന്ന സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം നമ്മൾ എടുക്കാൻ പോകുന്ന ട്രയൽ സൊല്യൂഷൻ ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മൾ വേവിനെ സ്പേസിൽനിലനിർത്തും ടൈമിൽ നമുക്ക് വേവിനെ കിട്ടുമോ അതാണ് ചോദ്യം ഇതാണ് നമ്മൾ പിന്തുടരേണ്ട തന്ത്രം താഴെക്കാണുന്ന രൂപത്തിൽ ഞാൻ ഇത് എഴുതാൻ പോവുകയാണ് നമുക്ക് ഇത് നിരീക്ഷിക്കാം സ്പേസിൽ വേവ് ഉള്ള ഈ രൂപത്തിൽ ആണ് ട്രയൽ സൊല്യൂഷൻ അവിടെ ടൈമിൽ ചില ആൽഫ ടെർമ്ഉണ്ട് ഈ xഡിസ്ക്രിടൈസ് പതിപ്പ് ആണ് i നിങ്ങളുടെ ഇന്റിജർ ആണ് കോംപ്ലക്സ് അല്ല ശരിയായ സൊല്യൂഷൻ എന്താണ് ഈ കുറച്ചുകൂടി പൊതുവായത് ആണ് ഫേസർആണ് പൂർണ്ണമായ ഡികേയിങ്ങ് എക്സ്പോണെൻഷിയൽഅഥവാ പൂർണമായ ഇന്ക്രീസിങ് എക്സ്പോണെൻഷിയൽ പോലെ മാറി എന്ന് വിചാരിക്കുക വിദ്യാർത്ഥി കാരണം അങ്ങനെ സംഭവിക്കാം ഉദാഹരണമായി ആയി മാറാം ഒരു കോപ്ലക്സ് നമ്പർ ആയിരിക്കും എങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ സൊല്യൂഷൻ ഇനി ഒരു വേവ് ആയിരിക്കില്ലഇത് ക്ഷീണിപ്പിക്കുന്നു അഥവാ കൂടുന്നു ഈ സാഹചര്യത്തിൽ ഭൌതികമായി പ്രതീക്ഷിക്കാത്തതാണിത് നമ്മൾ ഈ സൊല്യൂഷൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് പലതരം സൊല്യൂഷൻസ് പിടിച്ചെടുക്കുന്നു എന്നതാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നത് ഇവിടെ ആണ് ആണ് അത്കൊണ്ട് എന്റെ t ആവുന്നു ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ചോദ്യം എന്തായി മാറും ഞാൻ ഈ ഫോം ഇവിടെ 4 ൽ എടുത്താൽ ചോദ്യം എന്താവും 4 നെ എന്തിലേക്കിടും3 ലേക്ക് എന്നിട്ട് നമുക്ക് വേവ് കിട്ടുമോ ഡിസ്ക്രിടൈസ്ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുത്ത വഴി നല്ലതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാൻ ഞാൻ ഒരു സൂചന തരാം നമുക്ക് ഡെൽറ്റ x ലും ഡെൽറ്റ tയിലും നമുക്ക് ചില വ്യവസ്ഥകൾ കിട്ടും ആ വ്യവസ്ഥകളിൽ സൊല്യൂഷൻഒരു വേവ് ആയിരിക്കും അതാണ് നടക്കാൻ പോവുന്നത് നമുക്ക് ഇത് സബ്സ്റ്റിട്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം അതിന് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷന്റെ LHS എടുക്കാം എനിക്ക് എന്ത് കിട്ടും നമുക്ക് ഇത് ഇവിടെ എഴുതാം അതായത് കിട്ടും അതാണ് എന്റെ എന്ത് സംഭവിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് LHS ലെയും RHS ലെയും എല്ലാ ടെർമുകളിലും ഒരു ഫാക്ടർ പൊതുവായുണ്ട് എന്നതാണ് അതാണ് അവ എക്സ്പൊണെൻഷിയൽ ആണ് അതിനാൽ അവ പരസ്പരം ഗുണിക്കപ്പെടും പൊതുവായി ഉള്ളതായിരിക്കും ആദ്യത്തെ ടെർമ് അതെന്തായി മാറും എല്ലായിടത്തുംകോൺസ്റ്റന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവും കാരണം എടുക്കുന്നു അടുത്ത ടെർമ് ആവും നമ്മൾ 4 നെ 3 യിലേക്ക് സബ്സ്റ്റിട്യൂട്ട് ചെയ്യുന്നു 3 ന്റെ ആദ്യത്തെ ടെർമ് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്3 ന്റെ LHSഇതിന് പകരം ഉള്ളത് വിദ്യാർത്ഥി ഡെൽറ്റ x വളരെ നല്ലത് അടുത്ത ടെർമ് മൈനസ് 2 ആവും അതായത് n1 ഒന്നാമത്തെ ടെർമ് നോക്കുക അത് ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുത്ത് ഉള്ളിലുള്ള ടെർമിനോട് ഗുണിച്ചു എനിക്ക് കിട്ടി ആണ് രണ്ടാമത്തെ ടെർമ് ഇനി എന്തെങ്കിലും അവസാനത്തെ ടെർമ് ആണ് ഇത്എന്തിനോട് സമം ആണ് നെ ഞാൻ മറ്റേ വശത്തേക്ക് എടുക്കുംവീണ്ടും ഞാൻ ഇവിടെ നെ പൊതുവായി പുറത്തേക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ആദ്യത്തെ ടെർമ് ആയി മാറും വേറെ എന്തെങ്കിലും മറ്റു ശേഷിക്കുന്ന കോൺസ്റ്റന്റ്സ് നോട് ഗുണിക്കണം അതായത് ഇവിടെ ഒരുപാട് ടെർമുകൾ ക്യാൻസൽ ആയിപോവുന്നത് നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെയാണ് അവ ക്യാൻസൽ ആവുന്നുണ്ടോ ഇടത് വശത്തു നിന്നും വലത് വശത്തു നിന്നും ക്യാൻസൽ ആയി പോവുന്ന ന്റെ ഏറ്റവും സൌകര്യപ്രദമായ പവർ ഏതാണ് വിദ്യാർത്ഥി വലതു വശം അല്ലെ വലതുവശത്തെ അവസാനത്തെ ടെർമ് ഇതിനെ ഒന്നുകൂടി ലളിതമാക്കി ക്യാൻസൽ ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യത്തെ ടെർമ് എന്തായി മാറും ഈ ആൽഫപുറത്തേക്ക് വരും ഞാൻ നെ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറയാം എന്താണ് അത് ആയി മാറും അത്കൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത് വലത് വശത്തു ഞാൻ ക്യാൻസൽ ചെയ്തു അതിനാൽ ആദ്യത്തെ ടെർമ് ഇത് എന്ത് തരത്തിലുള്ള ഇക്വേഷൻ ആണ് ആൽഫയിൽ നെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇതിനെ എനിക്ക് വീണ്ടും ക്വാഡ്രാറ്റിക് ഫോമിൽലളിതമാക്കി എഴുതാം അപ്പോൾ എനിക്ക് കിട്ടും ഈ ഇടത് വശത്തേക്ക് തള്ളും നെ പകുതി കോണുകളുടെ അടിസ്ഥാനത്തിൽ ലളിതമാക്കാം ഇത് എനിക്ക് ഇങ്ങനെ എഴുതാം വിദ്യാർത്ഥി മൈനസ് 1 അതേ അവിടെ ഒരു മൈനസ് 1 ഉണ്ടാവും ഇനി ഞാൻ കിട്ടുന്ന അന്തിമ ഫോം എഴുതാം ഞാൻ നെ മറ്റേ വശത്തേക്ക് നീക്കുന്നു ആയി മാറും ഇതാണ് ഇവിടുത്തെ ടെർമ് ലളിതമായ അൽജിബ്രാആണിത് ഇവിടെ ഉള്ള മുഴുവൻ ടെർമിനെയും നമുക്ക് A എന്ന് വിളിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി ഇവിടെ കിട്ടാൻ പോകുന്ന സൊല്യൂഷൻഏത് തരത്തിലുള്ളതാണ് എന്ന് നോക്കണം വേറൊരു തരത്തിൽ പറഞ്ഞാൽ എന്ത് ആണ് എനിക്ക് കിട്ടുക